ഈ കോഴ്സിന്റെ അവസാന പ്രഭാഷണത്തിൽ പി എൻപി എന്നിവയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഈ ചോദ്യം നമുക്ക് നോക്കാം ഇത് കമ്പ്യൂട്ടർ സയൻസിലെ അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ തുറന്ന പ്രശ്നങ്ങളിലൊന്നായി പരാമർശിക്കപ്പെടുന്നു തന്നിരിക്കുന്ന പ്രശ്ന പരിഹാരം സാധുതയുള്ളതാണോയെന്ന് പരിശോധിക്കാൻ നമ്മളെ അനുവദിക്കുന്ന ഒന്നാണ് ചെക്കിംഗ് അൽഗോരിതം എന്ന് നമ്മൾ കണ്ടു അതിനാൽ ഒരു ചെക്കിംഗ് അൽഗോരിതം പ്രശ്നം തന്നെ പരിഹരിക്കണമെന്നില്ല പക്ഷേ അതിന് ചെയ്യാൻ കഴിയുന്നത് പ്രശ്നത്തിലേക്ക് ഒരു ഇൻപുട്ട് എടുക്കുക ആ പ്രശ്നത്തിന് സാധ്യതയുള്ള പരിഹാരം ആ പരിഹാരം യഥാർത്ഥത്തിൽ ഒന്നാണോ അല്ലയോ എന്ന് സാധൂകരിക്കുക എന്നിവയാണ് പ്രശ്നം തന്നെ പരിഹരിക്കാതെ തന്നെ തന്നിരിക്കുന്ന പരിഹാരം സാധുവായ പരിഹാരമാണോ എന്ന് പരിശോധിക്കാൻ കഴിയും ഇൻപുട്ടിന്റെ വലുപ്പത്തിൽ പോളിനോമിയൽ സമയത്ത് ചെക്ക് പ്രവർത്തിക്കുന്നു എന്ന അധിക പരിമിതിയിൽ അത്തരം ചെക്കിംഗ് അൽഗോരിതം നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ക്ലാസാണ് ക്ലാസ് എൻപി അതിനാൽ പരിശോധന കാര്യക്ഷമമായിരിക്കണം എല്ലാ പ്രശ്നങ്ങളിലും അവസാന പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടു ഇത് വാസ്തവത്തിൽ ശരിയാണ് ഫാക്ടറൈസേഷൻ ഒരു എൻപിയാണ് കാരണം രണ്ട് ഘടകങ്ങൾ നൽകിയാൽ നമുക്ക് ആവശ്യമെങ്കിൽ പരിശോധിച്ച് ഉത്തരം ലഭിക്കുന്നതിന് അവയെ കാര്യക്ഷമമായി ഗുണിക്കാം സംതൃപ്തി വീണ്ടും കാരണം നമ്മൾ ഫോർമുല വേരിയബിളുകളിൽ ശരി തെറ്റ് എന്ന അസൈൻമെന്റ് എടുക്കുകയും ഫോർമുല അതിനുശേഷം ശരിയാണെന്ന് വിലയിരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം വീണ്ടും ബൌണ്ടഡ് പതിപ്പിനൊപ്പം ട്രാവൽ സെയിൽസ്മാൻ നമുക്ക് ഒരു നിശ്ചിത പാതയിലൂടെ പോകാം ഇത് ഒരു ലളിതമായ സൈക്കിളാണോയെന്ന് പരിശോധിക്കുക ഭാരം കൂടചേർക്കുക ബൌണ്ട് തൃപ്തികരമാണെന്ന് സ്ഥിരീകരിക്കുക അതുപോലെ തന്നെ വെർട്ടെക്സ് കവറും സ്വതന്ത്ര സെറ്റും അതിനാൽ ഇവയെല്ലാം എൻപിയാണ് കാരണം ഇൻപുട്ട് വലുപ്പവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാര്യക്ഷമമായി സാധൂകരിക്കാൻ കഴിയും ട്രാവലിംഗ് സെയിൽസ്മാൻ വെർട്ടെക്സ് കവർ സ്വന്തന്ത്ര സെറ്റ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നമ്മൾ ഒരു ഒപ്റ്റിമൈസേഷൻ പ്രശ്നം എടുക്കുകയും അത് ഒരു അതിർത്തി പരിശോധന പ്രശ്നമാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ ഉത്തരം കണ്ടെത്തുന്നതിന് ബൈനറി സേർച്ച് ഉപയോഗിച്ച് പരിധി നിർണ്ണയിക്കാമെന്നും നമ്മൾ പറയുന്നു അതിനാൽ ഈ ബൈനറി സെർച്ചിന് ലോഗരിഥമിക് ഘടകം ഉണ്ട് അതിനാൽ മൊത്തത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സാമാന്യത നഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾ ഒരു പോളിനോമിയൽ ടൈം സ്റ്റെപ്പ് എടുക്കുന്നു തുടർന്ന് നിങ്ങൾ ലോഗരിഥമിക് വസ്തുക്കളാൽ ഗുണിക്കുന്നു അതിനാൽ എല്ലാം ഇപ്പോഴും സമാനമാണ് സംതൃപ്തി പോലുള്ള ശുദ്ധമായ പരിശോധന പ്രശ്നങ്ങളും പരിഷ്ക്കരിച്ച പരിശോധന പ്രശ്നങ്ങളും തമ്മിൽ വ്യത്യാസമില്ല അതിൽ ഒരു ബൌണ്ട് ട്രാവലിംഗ് സെയിൽസ്മാൻ അല്ലെങ്കിൽ വെർട്ടെക്സ് കവർ അവതരിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ക്ലാസിനെ എൻപി എന്ന് വിളിക്കുന്നത് എൻപി നിർണ്ണയിക്കാത്ത പോളിനോമിയൽ സമയം എന്ന പദത്തിൽ നിന്നാണ് അതിനാൽ ഇത് ഒരു ചരിത്ര റഫറൻസാണ് ഇത് നിങ്ങൾക്ക് പരിഹാരത്തെ നിർണ്ണയിക്കാനാവാത്ത പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന വസ്തുതയെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് പരിഹാരം മാന്ത്രികമായി നിർമ്മിക്കാൻ കഴിയും തുടർന്ന് പോളിനോമിയൽ സമയത്ത് പരിഹാരം ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഈ പദത്തിന്റെ യഥാർത്ഥ ഉത്ഭവം കമ്പ്യൂട്ടിബിലിറ്റി സിദ്ധാന്തത്തിൽ നിന്നാണ് നിർണ്ണയിക്കാത്ത ട്യൂറിംഗ് മെഷീനുകളുടെ സിദ്ധാന്തത്തിൽ നിന്നാണ് നമ്മൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇതിനെ എൻപി എന്ന് വിളിക്കുന്നത് എന്നാൽ നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രധാനമല്ല അൽഗോരിതം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് മനസിലാക്കുന്നത് നമുക്ക് അത്ര പ്രധാനമല്ല അതിനാൽ എൻപി വരുന്നത് നിർണ്ണയിക്കാത്ത പോളിനോമിയൽ സമയത്തിൽ നിന്നാണ് ഇത് ട്യൂറിംഗ് മെഷീനുകളിൽ നിന്നാണ് ആളുകൾ ഒരു പി എൻപി എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ട് ക്ലാസുകൾ എൻപി എന്താണെന്ന് നമ്മൾ കണ്ടു എന്താണ് പി ഈ കോഴ്സിൽ നമ്മൾ പര്യവേക്ഷണം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളുടെ ക്ലാസ് മാത്രമാണ് പി പോളിനോമിയൽ സമയത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും മോശം അൽഗോരിതം ഉള്ള പ്രശ്നങ്ങളാണിവ അതിനാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത് N സ്ക്വയേർഡ് N ക്യൂബ്ഡ് ഫോമിന്റെ പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക അപ്പോൾ എല്ലാം ക്യൂബ് ചെയ്തു പ്രായോഗിക കാര്യങ്ങളുടെ കാര്യത്തിലോ എൻ ലോഗ് എൻ പോലുള്ള കാര്യങ്ങളിലോ നമ്മൾ ഇതിലും കുറവാണ് നോക്കുന്നത് പക്ഷേ നമ്മൾ തീർച്ചയായും ചെയ്യും ഒരു N N ഫാക്റ്റോറിയൽ ആകാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും മോശം അവസ്ഥ കണക്കിലെടുത്ത് പതിവ് പോളിനോമിയൽ സമയ സങ്കീർണ്ണതയുമായുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു വിഭാഗമാണ് പി ഇപ്പോൾ എല്ലാ നിർവചനത്തിലും പിയിലെ എല്ലാം എൻപിയിലും ഉണ്ട് കാരണം ഇത് പരിശോധിക്കുന്നതിന് നമുക്ക് ഒരു പരിഹാരം ലഭിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പി യിൽ ഉള്ളതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ പരിഹാരം സ്വയം സൃഷ്ടിക്കാൻ കഴിയും അൽഗോരിതം പരിശോധിക്കുന്നത് ആരോടെങ്കിലും നമുക്ക് ഇൻപുട്ടും നിർദ്ദേശിത പരിഹാരവും നൽകാൻ ആവശ്യപ്പെടുകയും അത് സാധൂകരിക്കുകയും ചെയ്യുക പിയിലെ ഒരു പ്രശ്നം നമുക്ക് യഥാർത്ഥത്തിൽ പരിഹാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ നമുക്ക് വീണ്ടും സാധൂകരിക്കാൻ കഴിയും പിയിലെ എല്ലാ പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ എൻപിയിലാണ് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം പി എൻപിയ്ക്ക് തുല്യമാണോ എന്നതാണ് ഇത് ഒരു സംഭാഷണ ഗ്രൂപ്പാണ് എനിക്ക് കാര്യക്ഷമമായ ഒരു ചെക്കിംഗ് അൽഗോരിതം ഉള്ളപ്പോഴെല്ലാം ഒരു പരിഹാരം സൃഷ്ടിക്കുന്നതിന് എനിക്ക് കാര്യക്ഷമമായ ഒരു അൽഗോരിതം ഉണ്ടോ അവബോധപൂർവ്വം ഇത് അങ്ങനെയായി കാണപ്പെടുന്നില്ല നമ്മൾ നിരീക്ഷിച്ചതുപോലെ ഫാക്ടറൈസേഷൻ ഹോംവർക്ക് പരിശോധിച്ച അധ്യാപകന് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യണമെന്ന് പോലും അറിയില്ല അധ്യാപകന് മാത്രമേ അറിയൂ എങ്ങനെ വർദ്ധിപ്പിക്കണം അതിനാൽ ഇത് അവബോധപരമായി വളരെ ലളിതമായി തോന്നുന്നു ഒരു പരിഹാരം പരിശോധിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒന്ന് സൃഷ്ടിക്കുന്നതിന് ഈ അറിയിപ്പ് ഔപചാരികമാക്കാമോ എന്ന് നോക്കാം പി എൻപിയ്ക്ക് തുല്യമല്ലെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് ഒരു കാരണം അനുഭവത്തിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അനുഭവേദ്യമാണ് അതിനാൽ നിരവധി സ്വാഭാവിക പ്രശ്നങ്ങൾ ഫാക്ടറൈസേഷൻ സംതൃപ്തി ട്രാവലിംഗ് സെയിൽസ്മാൻ വെർട്ടെക്സ് കവർ സ്വതന്ത്ര സെറ്റ് ഇവയെല്ലാം എൻപിയിൽ ഉണ്ട് വെർട്ടെക്സ് കവറും സ്വതന്ത്ര സെറ്റും പരസ്പരം കുറയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു ഇന്ന് മറ്റ് ചില എൻപി പ്രശ്നങ്ങളും പരസ്പരം കുറയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണും വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ കുറയ്ക്കുന്നതായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇതിനർത്ഥം അവയ്ക്ക് ഒരേ അളവിലുള്ള കാഠിന്യം ഉണ്ടെന്നാണ് കാരണം കാര്യങ്ങൾ കുറയുമ്പോൾ ഒന്നിനും മറ്റൊന്നിനും ഇടയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കാര്യക്ഷമമായ പരിഹാരങ്ങൾ കൈമാറാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യക്ഷമതയില്ലെന്ന് അവകാശപ്പെടാം എന്നാൽ ഫലപ്രദമായി ഒരേ തരത്തിലുള്ളവയെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് പരിഹരിക്കാൻ കഴിയും മറ്റൊന്ന് ഏകദേശം ഒരേ സമയം പരിഹരിക്കാൻ കഴിയും ഇവയിലേതെങ്കിലും ഒന്ന് പരിഹരിക്കുക മാത്രമാണ് ഇതിന് വേണ്ടത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യക്ഷമമായ പരിഹാരം ലഭിക്കും എന്നാൽ ആളുകൾ വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾ വ്യത്യസ്ത കോണുകളിൽ നിന്നും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അത് കണ്ടെത്തിയില്ല അതിനാൽ ഇവയ്ക്ക് നല്ല പരിഹാരമില്ലെന്നതിന് നല്ല പരീക്ഷണാത്മക തെളിവുകൾ ഉണ്ട് നമുക്ക് ഈ ഇന്റർ റിഡക്റ്റബിലിറ്റികളെ കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കാം നമ്മൾ ബൂളിയൻ സംതൃപ്തിയോടെയാണ് ആരംഭിക്കുന്നത് ബൂളിയൻ സംതൃപ്തിയിൽ നമുക്ക് ക്ലോസുകൾ ഉണ്ടെന്നും ക്ലോസുകൾ രചിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിന്റെ വിഭജനത്തിലൂടെയാണെന്നും അതിനാൽ നമ്മൾ x അല്ലെങ്കിൽ y അല്ലെങ്കിൽ z എടുക്കുന്നു ഒരു ക്ലോസ് രൂപീകരിക്കുന്നതിന് ഈ സ്റ്റണ്ടുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഈ ക്ലോസുകൾ ഒരു ആക്റ്റിനൊപ്പം ചേർക്കുക പൊതുവേ തൃപ്തികരമായ അസൈൻമെന്റ് എങ്ങനെ കണ്ടെത്താമെന്ന് ചിന്തിക്കാൻ പ്രയാസമാണെന്ന് നമ്മൾ വാദിച്ചു പക്ഷേ വേരിയബിളുകൾക്കായി മൂല്യനിർണ്ണയ മൂല്യങ്ങളുടെ ഒരു അസൈൻമെന്റ് ലഭിക്കുകയാണെങ്കിൽ അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് വേഗത്തിൽ പരിശോധിക്കാൻ കഴിയും സംതൃപ്തിയുടെ നിയന്ത്രിത രൂപത്തെ 3 സാറ്റ് എന്ന് വിളിക്കുന്നു 3 സാറ്റിൽ നമുക്ക് x അല്ലെങ്കിൽ y അല്ലെങ്കിൽ z പോലുള്ള ക്ലോസുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് x അല്ലെങ്കിൽ y എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരിക്കാം നമുക്ക് z പോലുള്ള നിസ്സാരകാര്യങ്ങൾ പോലും ഉണ്ടായിരിക്കാം പക്ഷേ ഓർക്കുക നമുക്ക് ഒരു ഉപവാക്യം ഉണ്ടെങ്കിൽ അത് പറയുന്നു ഇത് നിർമ്മിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം ഇത് z ശരിയാക്കാൻ മധ്യത്തിൽ പ്രേരിപ്പിക്കുന്നു കാരണം ഒരു ഓപ്ഷനും ഇല്ല ഞാൻ x അല്ലെങ്കിൽ y ചേർത്താൽ എനിക്ക് x ശരി അല്ലെങ്കിൽ y ശരി ആക്കാൻ കഴിയും അതിനാൽ ഇതുപോലുള്ള നമ്മുടെ ഉപവാക്യം കൂടുതൽ പ്രശ്നമുണ്ടാക്കില്ല കാരണം ഇത് ഒരു പ്രത്യേക വേരിയബിളിനായി ഒരു മൂല്യനിർണ്ണയത്തെ പ്രേരിപ്പിക്കുന്നു തുടർന്ന് എനിക്ക് 2 ഉള്ളതിലേക്ക് പ്രശ്നം കുറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ 3 അതിനാൽ 3 സാറ്റിന് സാധാരണയായി രണ്ട് വേരിയബിളുകൾ അല്ലെങ്കിൽ മൂന്ന് വേരിയബിളുകൾ ഉണ്ട് എന്നാൽ മൂന്നിൽ കൂടുതൽ ഇല്ല ഇതിന് നാലോ അഞ്ചോ വേരിയബിളുകൾ ഇല്ല ആദ്യത്തെ ക്ലെയിം 3 സാറ്റ് പൊതുവെ ഒരു സാറ്റ് ആണ് നമ്മൾ ഇത് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു എനിക്ക് ഒരു നിർദ്ദിഷ്ട ക്ലോസ് ഉണ്ടെന്ന് കരുതുക ഇതിന് അഞ്ച് വേരിയബിളുകൾ ഉണ്ട് അതിനാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മൂന്ന് വേരിയബിളുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ എന്തുചെയ്യും ഈ ഭാഗം മുറിക്കുക ആദ്യ രണ്ടെണ്ണവും ഈ ഭാഗത്തിന്റെ സ്ലൈസ് ഉം ഞാൻ സൂക്ഷിക്കുകയും ചെയ്യും ഞാൻ ഒരു പുതിയ വേരിയബിൾ a അവതരിപ്പിക്കും അത് v അല്ലെങ്കിൽ അല്ല w അല്ലെങ്കിൽ a എന്ന് ഞാൻ പറയും കൂടാതെ ബാക്കി ഉള്ളതിന് അല്ല എന്ന് ചേർക്കും ഇപ്പോൾ ഇത് എന്താണ് എന്നോട് പറയുന്നത് ഇത് എന്നോട് പറയുന്നു ഈ കേസിൽ ഇവ രണ്ടും തെറ്റാണെന്ന് കരുതുക എന്നിട്ട് ഇത് ശരിയാക്കാനും a സത്യമാക്കാനും എന്നാൽ a സത്യമാണ് പിന്നെ ഇത് മറുവശത്ത് തെറ്റാണ് ഇതിനർത്ഥം ഈ ഉപവാക്യം ശരിയാണ് ഇവയിലൊന്ന് ശരിയായിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് a v w എന്നിവ തെറ്റാണെന്ന് പറയുന്നില്ല മറ്റ് മൂന്ന് വേരിയബിളുകളിൽ ഒന്ന് ശരിയായിരിക്കണം അതാണ് യഥാർത്ഥ പ്രശ്നം ഈ അഞ്ചിൽ ഒന്ന് ശരിയായിരിക്കണം മറുവശത്ത് v അല്ലെങ്കിൽ ഇല്ല w എന്നത് ശരിയാണെങ്കിൽ എനിക്ക് a തെറ്റ് സജ്ജമാക്കാൻ ശ്രമിക്കാം a തെറ്റ് ശരിയാണെങ്കിൽ പോലും ശരിയാകുന്നില്ലെങ്കിൽ ശേഷിക്കുന്ന വേരിയബിളുകളുടെ പ്രയോഗമല്ല ഞാൻ ഈ വിപുലീകരണത്തിലൂടെ ഇത് നീക്കംചെയ്തുകൊണ്ട് ആദ്യത്തെ രണ്ട് വേരിയബിളുകളെ വിഭജിച്ച് ഇന്റർമീഡിയറ്റ് കാര്യങ്ങളിൽ ഇത് ചേർത്ത് രണ്ട് ക്ലോസുകളെ രണ്ട് ക്ലോസുകൾ ഉൽപാദിപ്പിക്കുന്നു യഥാർത്ഥ ക്ലോസിന് സമാനമായ സംതൃപ്തി ഉണ്ട് ഇപ്പോൾ നിർഭാഗ്യവശാൽ എനിക്ക് ഇവിടെ വളരെയധികം വേരിയബിളുകൾ ഉണ്ട് അതിനാൽ ഞാൻ എന്തുചെയ്യും ഞാൻ ഇപ്പോൾ വീണ്ടും രണ്ട് സൂക്ഷിക്കുകയും റെസ്പോൻസ് വിഭജിക്കുകയും ചെയ്യും ഞാൻ ചെറിയ പുതിയ വേരിയബിൾ ബി സൂക്ഷിക്കില്ല തുടർന്ന് ഞാൻ ബി എടുക്കാതെ അവശേഷിക്കുന്ന ബി എടുക്കും ഈ സമയത്ത് ഭാഗ്യവശാൽ ഞാൻ ഇപ്പോൾ എല്ലാം മൂന്ന് വേരിയബിളുകളായി കുറയ്ക്കുന്നു എനിക്ക് ഇത് നിർത്താൻ കഴിയും എനിക്ക് നാല് വേരിയബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ഒരേ കാര്യം ചെയ്യണം അല്പം സി ചെയ്യുക സി അല്ല എന്നിങ്ങനെ ഈ രീതിയിൽ എനിക്ക് മൂന്നിൽ കൂടുതൽ അക്ഷരങ്ങളുള്ള ഏത് ഉപവാക്യവും എടുത്ത് മൂന്ന് അക്ഷരങ്ങളുടെ ക്രമത്തിൽ പുതിയ ലിറ്റരൽ ചേർത്ത് വ്യവസ്ഥാപിതമായി വിഘടിപ്പിക്കുന്നു 3 സാറ്റിലില്ലാത്ത ഏത് ക്ലോസും 3 സാറ്റ് ക്ലോസുകളുടെ ഒരു ശ്രേണിയായി പരിവർത്തനം ചെയ്യാൻ എനിക്ക് കഴിയും ഒപ്പം സീക്വൻസ് എത്ര വലുതാണ് അത് ക്ലോസിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിന്റെ ഭാഗമാകും അതിനാൽ എന്റെ ഫോർമുലയിലെ ആഘാതം യഥാർത്ഥ ഫോർമുലയിൽ ലീനിയർ ആയിരിക്കും അത് പ്രധാനമാണ് കാരണം അത് റിഡക്ഷൻ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു റിഡക്ഷൻ ഭാഗം കാര്യക്ഷമമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു റിഡക്ഷന് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല മറ്റുള്ളവ നമുക്ക് കാര്യക്ഷമമായി കാണാവുന്ന ക്ലെയിമുകൾ കൈമാറാൻ കഴിയില്ല ഇത് നമ്മോട് എന്താണ് പറയുന്നത് SAT കഠിനമാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു 3 SAT ഉം കാരണം ഞാൻ SAT നെ 3 SAT ആയി കുറയ്ക്കുന്നു അതിനാൽ കുറച്ചുകൂടി ആശ്ചര്യകരമല്ലാത്ത റിഡക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വതന്ത്ര സെറ്റും വെർട്ടെക്സ് കവറും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവ സമാന പ്രശ്നങ്ങളാണ് അതുപോലെ നമ്മൾ SAT ഉം 3 SAT ഉം കണ്ടു ഇവ സമാന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾക്കിടയിലുള്ള വിടവ് നികത്താൻ പോകുന്നു നമ്മൾ 3 സാറ്റ് നോക്കാൻ പോകുന്നു 3 സാറ്റ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്വതന്ത്ര സെറ്റിലേക്ക് കുറയ്ക്കാൻ കഴിയും ഇത് കുറച്ചുകൂടി ആശ്ചര്യകരമാണ് കാരണം അവ വേരിയബിൾ വ്യത്യസ്ത ഡൊമെയ്നുകളിൽ നിന്നാണ് വന്നത് ഒരു സാധാരണ 3 സാറ്റ് ഫോർമുല ഇതാ നമുക്ക് 1 2 3 4 ക്ലോസുകളുണ്ട് അവയിൽ ഓരോന്നിനും പരമാവധി മൂന്ന് അക്ഷരങ്ങളുണ്ട് അതിനാൽ ഇതിന് രണ്ട് അക്ഷരങ്ങളുണ്ട് മറ്റൊന്ന് നമുക്ക് 3 സാറ്റ് ഉള്ളതിനാൽ നമുക്ക് ഒരു ഘടനയുണ്ട് മൂന്നിനാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ ത്രികോണത്തിന്റെ എല്ലാ ഉപവാക്യങ്ങളും നമ്മൾ പ്രതിനിധീകരിക്കും കൂടാതെ ത്രികോണത്തിൽ അക്ഷരത്തെ സൂചിപ്പിക്കുന്ന ഒരു ലേബൽ ഇടുകയും ചെയ്യും അതിനാൽ x അല്ല പകരം x എന്നത് ഈ കാര്യത്തിലല്ല y ആണ് അതിനാൽ ഇത് x അല്ലെങ്കിൽ y അല്ലെങ്കിൽ z അല്ല z അല്ല ഈ ത്രികോണം അതുപോലെ ഇത് x അല്ലെങ്കിൽ y അല്ലെങ്കിൽ z അല്ല അതിനാൽ ഈ രീതിയിൽ എല്ലാ ക്ലോസും ഗ്രാഫ് ചെയ്യുന്നതിന് ത്രികോണം സംഭാവന ചെയ്യുന്നു എന്താണ് ഈ ത്രികോണം സൂചിപ്പിക്കുന്നത് ഈ ത്രികോണം സൂചിപ്പിക്കുന്നത് സ്വതന്ത്ര സെറ്റ് ഇവയിലൊന്ന് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ y എന്ന് പറയുക അതിന് മറ്റ് രണ്ടെണ്ണം തിരഞ്ഞെടുക്കാൻ കഴിയില്ല അതിനാൽ ഇത് എന്താണ് പറയുന്നത് ഇത് കൃത്യമായി ഇവയിലൊന്ന് ഉണ്ടാക്കാൻ പോകുന്നു ഈ ഫോർമുല യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഏത് അക്ഷരാർത്ഥികളാണ് സത്യമെന്ന് എനിക്ക് തിരിച്ചറിയാൻ പോകുന്നു ഓരോ ഉപവാക്യത്തിൽ നിന്നും എനിക്ക് ഒരു സാക്ഷ്യം നൽകുന്നത് ഒരു തരത്തിലാണ് സാധുവായ സാക്ഷി y എന്നത് ഇവിടെ 2 ആണെന്നത് ശരിയല്ല അടുത്ത മണിക്കൂറിന് സാക്ഷിയാകാൻ എനിക്ക് വിശാലമായി തിരഞ്ഞെടുക്കാനാവില്ല കാരണം y ഉം y ഉം പരസ്പരം സംഭാവന ചെയ്യുന്നില്ല കൂടാതെ ത്രികോണം വേരിയബിളാണെന്നും അത് പൂരകമാണെന്നും ഗ്രീൻ എഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കും എന്ന് പറയുന്ന ഈ പച്ച എട്ജസ് എനിക്കുണ്ട് അതിനാൽ ഈ y യെ നോട്ട് y യുമായി ബന്ധിപ്പിക്കുന്ന കുറച്ച് പച്ച എട്ജെസ് ഉണ്ടായിരിക്കണം ക്ലോസ് ഉണ്ടായിരിക്കണം ഈ y തൊട്ടു ആ നോട്ട് y വരെ ഓരോ വേരിയബിളും കണക്റ്റുചെയ്തിരിക്കുന്നത് പൂരകമാണ് അതിലൊന്ന് ഉണ്ടെങ്കിൽ മറ്റൊന്ന് ഉണ്ടാകാൻ കഴിയില്ല നമ്മൾ സ്വതന്ത്രമായി പറയുന്നത് ഒരു പരിഹാരം തിരഞ്ഞെടുക്കാനുള്ള സമയമാണിതെന്ന് ഓരോ ഉപവാക്യവും കൊണ്ട് ഒരു പരിഹാരം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇവിടെ y തിരഞ്ഞെടുക്കാം ഞാൻ ഇവിടെ y തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് ഞാൻ ഈ കാര്യങ്ങൾ തള്ളിക്കളയാൻ പോകുന്നു ഒരുപക്ഷേ എനിക്ക് ഇപ്പോൾ y അവിടെ തിരഞ്ഞെടുക്കാം തുടർന്ന് ഞാൻ ഇവിടെ എന്തെങ്കിലും തിരഞ്ഞെടുക്കും ഞാൻ ഇവിടെ x തിരഞ്ഞെടുക്കുന്നു ഞാൻ ഇവിടെ x തിരഞ്ഞെടുക്കുകയാണെങ്കിൽ x അല്ലെന്ന് ഞാൻ നിരസിച്ചു ഇത് x അല്ലെന്ന് നിങ്ങൾ തള്ളിക്കളയണം ഇപ്പോൾ ഞാൻ കുഴപ്പത്തിലാണ് കാരണം എനിക്ക് ഒന്നും ഇല്ല ഞാൻ ആ x തിരഞ്ഞെടുക്കരുത് അതിനാൽ ഞാൻ തിരികെ പോയി പറയുന്നു ഇത് നോട്ട് x തിരഞ്ഞെടുക്കണം ഇത് x അല്ല ഈ x നെ തള്ളിക്കളയുക ഈ x നിരസിച്ചു ഈ z സൂക്ഷിക്കാൻ നിർബന്ധിത മീറ്റ് ഇപ്പോൾ എനിക്ക് വലിപ്പം 4 ന്റെ ഒരു സ്വതന്ത്ര സെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു അതിനാൽ എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന പരിഹാരം x തെറ്റിലേക്ക് പോകുന്നു y ശരിയി ലേക്ക് പോകുന്നു zശരിയിലേക്ക് പോകുന്നു എന്നതാണ് ഈ പ്രത്യേക വലിപ്പം 4 ൽ സ്വതന്ത്ര സെറ്റിന്റെ നിലനിൽപ്പ് അത് വിലയ്ക്ക് 1 വീതം എടുക്കുന്നു ഒരു ഉപവാക്യത്തിനുള്ളിൽ എനിക്ക് 1 മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ എന്നത് ശ്രദ്ധിക്കുക എനിക്ക് നാല് ക്ലോസുകളുണ്ടെങ്കിൽ വലുപ്പത്തിന്റെ നിർബന്ധിത പ്രക്രിയയുടെ എണ്ണമാണ് സ്വതന്ത്ര സെറ്റ് എന്ന് ഞാൻ നിർബന്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായും എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു സാക്ഷി ലഭിക്കുമായിരുന്നു നമ്മളിലുള്ള ലിറ്റരൽസ് പരസ്പരം ഉൾക്കൊള്ളുന്നു കാരണം ഞാൻ z കണക്റ്റുചെയ്യുന്നു z x അല്ല എല്ലായിടത്തും x അല്ല ഒരേ വേരിയബിൾ ഫെബിനെ തള്ളിക്കളയുന്ന എട്ജസിലൂടെ ഒരേ സമയം പുനസജ്ജമാക്കൽ കണ്ടെത്തുകയും ഒരു സമയം തെറ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഈ സ്വതന്ത്ര സെറ്റ് ഇപ്പോൾ എന്റെ ഫോർമുല ശരിയാക്കുന്ന അക്ഷരീയ നാലെണ്ണം തിരഞ്ഞെടുക്കുന്നു വലിപ്പം 4 ന്റെ ഒരു സ്വതന്ത്ര സെറ്റ് ഉണ്ടെങ്കിൽ ഓരോ ക്ലോസും ശരിയാക്കാനും ഈ നാല് ക്ലോസുകളുടെ സെറ്റ് ശരിയാക്കാനും കഴിയും എനിക്ക് 3 സാറ്റിന് ഒരു പരിഹാരമുണ്ട് കൂടാതെ സ്വതന്ത്രമായി വലിപ്പം 4 ഇല്ലെങ്കിൽ പരിഹാരമില്ല അതിനാൽ 3 സാറ്റ് സ്വതന്ത്ര സെറ്റ് കുറയ്ക്കുന്നു ഇത് കുറച്ചുകൂടി ആശ്ചര്യകരമാണ് നമ്മൾ SAT ൽ നിന്ന് 3 SAT ലേക്ക് സജ്ജമാക്കുമ്പോൾ കുറയ്ക്കുന്നത് സമാനമായ പ്രശ്നങ്ങളാണ് സ്വതന്ത്ര സെറ്റിൽ നിന്ന് വെർട്ടെക്സ് കവറിലേക്കും പിന്നോട്ടും ഒരേ തരത്തിലുള്ള ഗ്രാഫിൽ ഘടനാപരമായി നേരിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത് ആശ്ചര്യകരമായ കാര്യമാണ് ബൂളിയൻ സംതൃപ്തിയും വെർട്ടെക്സ് പ്രശ്നങ്ങളും ഞാൻ സ്വതന്ത്ര വെർട്ടീസുകളും ഗ്രാഫും ബന്ധിപ്പിച്ചിരിക്കുന്നു 3 സാറ്റ് 3 സാറ്റ് കുറയ്ക്കുന്നു 3 സാറ്റ് സ്വതന്ത്ര സെറ്റ് കുറയ്ക്കുന്നു സ്വതന്ത്ര സെറ്റ് വെർട്ടെക്സ് കവർ എന്നിവ പരസ്പര ശേഷി കുറയ്ക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് ഇപ്പോൾ ഈ റിഡക്ഷൻസ് രചിക്കാൻ കഴിയുമെന്നതിനാൽ സാറ്റ് ഇപ്പോൾ വെർട്ടെക്സിലേക്ക് കുറയ്ക്കുന്നു കൂടാതെ ട്രാവെല്ലിംഗ് സെയിൽസ്മാൻ ഇൻറിജർ ലീനിയർ പ്രോഗ്രാമിംഗ് മുതലായ മറ്റ് പ്രശ്നങ്ങൾക്ക് അത്തരം കുറവ് നിങ്ങൾക്ക് സാഹിത്യത്തിൽ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഇവയെല്ലാം ഓർമിക്കേണ്ടത് പ്രധാനമാണ് ഈ സന്ദർഭത്തിലാണ് നമ്മൾ റിഡക്ഷനായി നോക്കുന്നത് ഇവിടെ പോളിനോമിയൽ സമയത്ത് പ്രീപ്രോസസിംഗും പോസ്റ്റ് പ്രോസസ്സിംഗ് ഘട്ടവും കാരണം റിഡക്ഷനിൽ സമയനഷ്ടമില്ലെന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എല്ലാ സങ്കീർണ്ണതയും പരിഹാരത്തിലാണ് എനിക്ക് b ന് ലളിതമായ ഒരു പരിഹാരമുണ്ടെങ്കിൽ ഞാൻ a ൽ നിന്ന് b യിലേക്ക് കുറയ്ക്കുമ്പോൾ a എന്നതിന് ലളിതമായ ഒരു പരിഹാരമുണ്ട് എനിക്ക് ഒരു സമ്പൂർണ്ണ പരിഹാരം ഉണ്ടെങ്കിൽ പരിഹാരം കുറയ്ക്കുന്നതാണ് സങ്കീർണ്ണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം റിഡക്ഷൻ ലളിതമാണ് കാരണം രണ്ട് പ്രശ്നങ്ങൾ സമാനമാണെന്ന വസ്തുത മാത്രമായിരിക്കണം അവയ്ക്ക് യഥാർത്ഥത്തിൽ ഒരേ സങ്കീർണ്ണത അതിനാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരസ്പരം കുറയ്ക്കാൻ കഴിയുമ്പോൾ ഇത് നൽകുമ്പോൾ അതിനർത്ഥം അവയെല്ലാം തുല്യമായി കഠിനമാണെന്നാണ് ഇപ്പോൾ കുക്കും ലെവിനും പ്രസിദ്ധമായ പ്രമേയം പറയുന്നത് എൻപിയുടെ എല്ലാ പ്രശ്നങ്ങളും സ്റ്റാക്കായി കുറയ്ക്കാമെന്നാണ് ഇപ്പോൾ ഇത് തികച്ചും അതിശയകരമായ സിദ്ധാന്തമാണ് കാരണം ഇത് എല്ലാം ഒരു എൻപി എടുക്കുന്നതിലൂടെ അവിടെയുള്ള എന്തും എനിക്ക് സാറ്റ് കുറയ്ക്കാൻ കഴിയും അതിനാൽ തൽക്ഷണം ആ പ്രശ്നം എടുക്കുന്നതിലൂടെ കുറച്ച് കുറവുണ്ടാകും എനിക്ക് അടുത്ത മാസത്തെ SAT ലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും സാറ്റ് ചേർത്ത് തിരികെ പോകുന്നവരെല്ലാം നമ്മൾ തീർച്ചയായും ഈ പ്രമേയം ഇവിടെ പരീക്ഷിച്ച് തെളിയിക്കാൻ പോകുന്നില്ല അനുയോജ്യമായ ഒരു പൊതു മൊഡ്യൂൾ എൻകോഡു ചെയ്യുന്നതിലൂടെയാണ് ഈ തെളിവ് എന്ന് അറിയാൻ ഇത് മതിയാകും അതിനാൽ മെഷീനുകളിൽ കുക്ക് ഉപയോഗത്തിന്റെ യഥാർത്ഥ തെളിവുകൾ നിങ്ങൾക്ക് ബൂളിയൻ സർക്കിളുകൾ രജിസ്റ്റർ മെഷീനുകളായി എടുക്കാം സാർവത്രികമായ എന്തും എല്ലാ പ്രശ്നങ്ങളും ഒരു എൻപി കണക്കാക്കാൻ കഴിയുന്ന എന്തും എന്നിട്ട് ആ പ്രശ്നത്തിന്റെ കണക്കുകൂട്ടൽ എന്ന് വാദിക്കുക എൻപിയെപ്പോലെ എന്തെങ്കിലും എൻപി കണക്കുകൂട്ടൽ ഉണ്ടെങ്കിൽ ഒരു ചെക്കിംഗ് പ്രശ്നമുണ്ട് ചെക്കിംഗ് അൽഗോരിതം ഉണ്ട് ആ പ്രശ്നത്തിനായി SAT ലെ ആ ചെക്കിംഗ് അൽഗോരിത്തിന്റെ സ്വഭാവം എൻകോഡുചെയ്യാൻ നിങ്ങൾക്ക് കഴിയും SAT തുല്യമാണെന്ന് മാറുന്നു എല്ലാം SAT ലേക്ക് കുറയ്ക്കുന്നു ഇത് നമുക്ക് സമ്പൂർണ്ണത എന്ന ആശയം നൽകുന്നു SAT പൂർത്തിയായി എന്ന് നമ്മൾ പറയുന്നു കാരണം ഇത് എൻപിയുടേതാണെന്നും എൻപിയിലെ എല്ലാ പ്രശ്നങ്ങളും ഇത് കുറയ്ക്കുന്നു ഇതാണ് എൻപി സമ്പൂർണ്ണതയുടെ നിർവചനം ഒരു പ്രശ്നം എൻപി പൂർത്തിയായി ഒന്നാമതായി ഒരു ചെക്കിംഗ് അൽഗോരിതം എൻപിയുടേതാണെങ്കിൽ കാര്യക്ഷമമായ ചെക്കിംഗ് അൽഗോരിതം കൂടാതെ എൻപിയിലെ എല്ലാ പ്രശ്നങ്ങളും ഒരു പോളിനോമിയൽ സമയം കുറയ്ക്കുന്നതിലൂടെ കുറയ്ക്കുന്നു അതിനാൽ കുക്ക് ലെവിൻ സിദ്ധാന്തത്തിന്റെ നിർവചനം അനുസരിച്ച് സാറ്റ് എൻപി പൂർത്തിയായി കാരണം ഇത് എൻപിയുടേതാണ് നമുക്കറിയാം എൻപിയിലെ എല്ലാ പ്രശ്നങ്ങളിലും കുക്ക് ലെവിൻ സിദ്ധാന്തം സ്ഥാപിക്കുന്നു പക്ഷേ സാറ്റ് തന്നെ 3 സാറ്റായി കുറയുന്നു അതിനാൽ എല്ലാ പ്രശ്നങ്ങളും SAT ആയി കുറയ്ക്കാനും തുടർന്നുള്ള പോളിനോമിയൽ ഘട്ടത്തിൽ 3 SAT ആയി കുറയ്ക്കാനും കഴിയും ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും 3 സാറ്റായി കുറയുന്നു മൂന്ന് സാറ്റുകളും എൻപിയാണ് 3 സാറ്റും എൻപി പൂർത്തിയായി ഇതാണ് ജനറിക് ടെക്നോളജി നിങ്ങൾക്ക് എൻപി പൂർത്തിയായ ചില പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ എന്റെ പ്രശ്നം കുറയ്ക്കുന്നു അത് ബി യും എൻപിയെ പൂർണ്ണമാക്കുന്നു കാരണം നൽകിയിരിക്കുന്നത് ബി ഒരു എൻപിയാണ് അത് എൻപിയല്ലെങ്കിൽ അത് എൻപി ഹാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ദുർബലമായ ഒന്നാണ് ഇത് എല്ലാ പ്രശ്നങ്ങളും എൻപിയാണെങ്കിലും പക്ഷേ ഇല്ലായിരിക്കാം എൻപി തന്നെ അതിനാൽ എൻപി ഹാർഡ് പറയുന്നു ഇത് എല്ലാ പ്രശ്നങ്ങളും കുറയ്ക്കുന്നു പക്ഷേ ഇത് എൻപിയുടേതാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല അതിനായി നിങ്ങൾക്ക് ഒരു ചെക്കിംഗ് അൽഗോരിതം ഇല്ല ഇതുപോലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിനായി ചെക്കിംഗ് അൽഗോരിതം വിവരിക്കാൻ എളുപ്പമല്ല പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും കുറവ് കാണിക്കാൻ കഴിയില്ല അല്ലാത്തപക്ഷം നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെക്കിംഗ് അൽഗോരിതം കണ്ടെത്താനും എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്താനും കഴിയും എൻപിയിൽ ഏത് പ്രശ്നമാണ് നിങ്ങൾ കണ്ടെത്തിയത് ഏത് എൻപി പൂർണ്ണ പ്രശ്നമായി ഇത് കുറയ്ക്കുന്നു അത് എൻപിയും പൂർത്തിയാക്കുന്നു പി എൻപിയ്ക്ക് തുല്യമാണോ എന്ന ചോദ്യത്തിലേക്ക് ഇത് നമ്മളെ തിരികെ കൊണ്ടുവരുന്നു ദൈനംദിന ജീവിത ഷെഡ്യൂളിംഗ് ബിൻ പാക്കിംഗ് എന്നിവ വളരെ പ്രധാനപ്പെട്ട നിരവധി ഉപയോഗപ്രദമായ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി ഇപ്പോൾ വിവിധ വസ്തുക്കളെ ഒരു കണ്ടെയ്നറിൽ ഒപ്റ്റിമൽ രീതിയിൽ അല്ലെങ്കിൽ ട്രാവെല്ലിംഗ് സെയിൽസ്മാൻ ടൂറുകളിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒപ്റ്റിമൽ ടൂറുകൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളാണ് ജീവിതം കാര്യക്ഷമമായി പരിഹരിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നു എൻപി സമ്പൂർണ്ണതയുടെ സിദ്ധാന്തം ഈ പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പരസ്പരം കുറയ്ക്കാനാകുന്നതാണെന്നും അതിനാൽ പരസ്പരം തുല്യമാണെന്നും എനിക്ക് ഒന്ന് പരിഹരിക്കാനും എനിക്ക് അവ പരിഹരിക്കാനും കഴിയുമെന്ന് പറയുന്നു ഇവ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായതിനാൽ കമ്പ്യൂട്ടർ സയൻസ് കണ്ടുപിടിച്ച കാലത്തിനുമുമ്പുതന്നെ ധാരാളം സ്മാർട്ട് ആളുകൾ ഈ പ്രശ്നങ്ങൾ നോക്കുന്നുണ്ടെന്നതിന് ഇപ്പോൾ ഈ പരീക്ഷണാത്മക തെളിവുകൾ നമ്മുടെ പക്കലുണ്ട് നൂറുകണക്കിനു വർഷങ്ങളായി ആളുകൾ ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങളും ബിൻ പാക്കിംഗ് പ്രശ്നങ്ങളും നോക്കുന്നു ഈ പ്രശ്നങ്ങൾ അവ ഇതുവരെ കാര്യക്ഷമമായ ഒരു പരിഹാരം നൽകിയിട്ടില്ലെങ്കിൽ കാര്യക്ഷമമായ പരിഹാരമില്ലെന്ന് തോന്നുന്നു പരീക്ഷണാത്മക തെളിവുകളിൽ നിന്നുള്ള അനുഭവപരമായ വീക്ഷണകോണിൽ നിന്ന് എൻപി പിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഇത് ശക്തമായി സൂചിപ്പിക്കുന്നതായി തോന്നുന്നു പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ഒരു തെളിവല്ല ഗണിതശാസ്ത്രപരമായി ഒരാൾ എൻപി പിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വാദിക്കേണ്ടതുണ്ട് ചില എൻപി പൂർണ്ണ പ്രശ്നങ്ങൾ ഒരു പോളിനോമിയൽ സമയം ഉപയോഗിച്ച് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതിൻറെ കാരണം അതാണ് ഇതിനെ ലോവർ ബൌണ്ട് എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ ഒരു താഴ്ന്ന ബൌണ്ട് സ്ഥാപിക്കേണ്ടതുണ്ട് ചില N P പൂർണ്ണ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് 1970 കളുടെ തുടക്കത്തിൽ കുക്കും ലെവിനും N P പൂർണ്ണത തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഇത് കൂടുതലാണ് N P സമ്പൂർണ്ണത എന്ന സിദ്ധാന്തം തന്നെ കണ്ടുപിടിച്ച് 40 വർഷമായി ധാരാളം ആളുകൾ ഈ പ്രശ്നം നോക്കുന്നു ഇത് ചെയ്യുന്നതിന് ആരും ഇതുവരെ നേരിട്ടുള്ള മാർഗം കണ്ടെത്തിയില്ല അതിനാൽ ഔപചാരിക തെളിവ് അവ്യക്തമാണ് അത് ഒരു ദശലക്ഷം ഡോളർ വിലമതിക്കുന്നു കാരണം ക്ലേ മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഒരു സമ്മാനം ഉണ്ട് ഗണിതശാസ്ത്രത്തിലെ പ്രസിദ്ധമായ തുറന്ന പ്രശ്നങ്ങളിലൊന്നാണിത് ക്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വലിയ സമ്മാനം നൽകി ഇത് വാസ്തവത്തിൽ അങ്ങനെയല്ലെന്ന് ആരെങ്കിലും തെളിയിക്കുന്നു അപ്പോൾ ഒരു വലിയ സമ്മാനം ഉണ്ട് അതിനാൽ ഈ കോഴ്സ് അവസാനിപ്പിക്കുന്നതിന് ഇത് ഉചിതമായ സ്ഥലമാണെന്ന് തോന്നുന്നു അതിനാൽ ഈ സമയം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു